ലേയൌട്സ് ആൻഡ് ഡിസൈൻസ് ഓഫ് സെൽ കൾച്ചർ ഫെസിലിറ്റി എല്ലാവർക്കും സെൽ കൾച്ചർ ടെക്നോളജിയുടെ ക്ലാസുകളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സെൽ കൾച്ചർ ലേയൌട്ട്കളും ഡിസൈനുകളും ആണ് നിങ്ങൾ പുസ്തകങ്ങളിലൂടെ ഇത്തരം ലേയൌട്ടുകളെയും ഡിസൈനുകളെയും പറ്റി തിരഞ്ഞാൽ ചില വിഷയങ്ങൾ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത് കാണാം ഇന്ന് ഞാൻ ലോകത്തിൻറെ പല ഭാഗങ്ങളിലായി സാമ്പത്തിക പരിമിതികൾക്കിടയിലും പല ആവശ്യങ്ങൾക്കുമായി ഉണ്ടാക്കിയ സെൽ കൾച്ചർ ഫെസിലിറ്റികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അത് എന്റെ സ്വന്തം അനുഭവങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എന്താണ് നമ്മുടെ ലക്ഷ്യം അതായത് എത്ര വലുതാകണം എത്ര ചെറുതാകണം എന്നല്ല ഞാനുദ്ദേശിക്കുന്നത് മറിച്ച് എന്താണ് ആ ലാബിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് സെൽ ബയോളജി എന്ന് പറയുന്ന ഒരു ലാബിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സൌകര്യം സജ്ജമാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വെലം ബയോളജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാബിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സെൽ കൾച്ചർ സൌകര്യം വേണമെങ്കിൽ അതിൻറെ ആവശ്യകതകൾ വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഒരു ബയോസെൻസർ ലാബിൽ സെല്ലിനെ സെൽ അധിഷ്ഠിത ബയോ സെൻസറിൽ ഇടാനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും അതുപോലെതന്നെ പിന്നെ അതൊരു ഒരു ടിഷ്യു എഞ്ചിനീയറിംഗ് ലാബാണെങ്കിൽ അവിടെ സെല്ലുകളുടെയും ടിഷ്യുകളുടെയും പല പദാർഥങ്ങളും ആയിട്ടുള്ള സംവേദനമാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആവശ്യങ്ങൾ വീണ്ടും മാറുകയാണ് അതുമല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കെമിസ്ട്രി വിഭാഗത്തിലാണെങ്കിൽ പലതരത്തിലുള്ള ഫ്ലുറെസെൻറ് മോളിക്യൂളുകളും പലതരത്തിലുള്ള ആൻറി കാൻസർ ഡ്രഗുകളും മറ്റു പല പുതിയ കോമ്പൌണ്ടുകളുമാണ് നിങ്ങൾക്ക് വളർത്തേണ്ടി വരിക അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ് അതിനാൽ ഞാൻ ഈ പോയിൻറ്കളെല്ലാം ഒന്ന് എഴുതട്ടെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ക്ലാസിലാണ്W2 L2 ഇന്ന് നമ്മൾ സെൽ കൾച്ചർ ലേഔട്ട്കളേയും ഡിസൈനുകളെയും പറ്റിയാണ് പറയുന്നത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു പലതരം സൌകര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് എന്തൊക്കെയാണ് അവ എന്തൊക്കെയാണ് വിവിധതരം ലക്ഷ്യങ്ങൾ അഥവാ ആവശ്യങ്ങൾ അതിനാൽ നമ്മൾ സംസാരിച്ചത് അതൊരു സെൽ ബയോളജി ലാബാണെങ്കിൽ അതിന് സെൽ ബയോളജി സൌകര്യങ്ങൾ വേണം അതുപോലെ തന്നെ ഡവലപ്മെന്റ് ബയോളജി ലാബിൽ അതിനനുസരിച്ചുള്ള സൌകര്യങ്ങൾ വേണം അതിലേക്കു പിന്നീട് വരാം എന്താണ് ഇതിലെ സവിശേഷത ഉദാഹരണത്തിന് ഒരു ലാബ് സെൽ അധിഷ്ഠിത ബയോസെൻസറുകളിൽ അല്ലെങ്കിൽ സെൽ ടിഷ്യു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ബയോളജി ലാബിൽ പ്രവർത്തിക്കുന്നു അടിസ്ഥാനപരമായി അവ പല ഡ്രഗ് മോളിക്യൂളുകളെ അതുപോലെ സെല്ലുകൾ തമ്മിൽ അല്ലെങ്കിൽ ഫ്ലുറെസെൻറ് മോളിക്യൂളുകളുമായുള്ള ഇടപെടൽ എന്നിവ സ്ക്രീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൽ ടിഷ്യു എഞ്ചിനീയറിംഗ് എന്നാൽ സെൽ ടിഷ്യു മെറ്റീരിയൽ പ്രതിപ്രവർത്തനം എന്നാണ് അതുപോലെ സെൽ അധിഷ്ഠിത ബയോസെൻസറുകൾ ബയോസെൻസർ ഘടകമെന്ന നിലയിൽ സെല്ലുലാർ ഘടകങ്ങളുടെ ഉപയോഗമാണ് അതുപോലെ സെല്ലും ഡെവലപ്മെന്റ് ബയോളജിക്കും ഒരു സെൽ കൾച്ചർ സൌകര്യം വേണമെങ്കിൽ അവർക്ക് സെൽ ലൈനിന്റെ പതിവ് മൈന്റനെൻസ് നടത്തേണ്ടതുണ്ട് എന്നാലത് നിങ്ങൾ ഏതുതരം ഡിപ്ലോമ ബയോളജിയാണ് ചെയ്യുന്നതെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ മൃഗങ്ങളോടും ഹിസ്റ്റോളജിയോടും മാത്രമായി ഇടപെടുന്ന ഇൻ വിവോ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻ വിട്രോ ഡെവലപ്മെൻറ് ബയോളജി ഉണ്ടാകാം അതായത് സിസ്റ്റത്തിന് പുറത്ത് ഒറ്റപ്പെട്ട സെല്ലുകൾ ഉപയോഗിച്ച് സെൽ ലൈനുകളും പ്രാഥമിക കൾച്ചറും ചെയ്യാം അതിന്റെ അർത്ഥമെന്താണ് അതിലേക്കു പിന്നീട് വരാം തീർച്ചയായും സെൽ ബയോളജിയുടെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വ്യത്യസ്ത തരം സെൽ ലൈനുകളും എല്ലാ സ്റ്റഫുകളും ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഈ പട്ടികയിൽ നിങ്ങൾക്ക് സമാനമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് സെൽ കൾച്ചർ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിനായി പ്രത്യേകമായി പ്രവർത്തിക്കുന്ന മറ്റൊരു അഞ്ചാമത്തെ ഗ്രൂപ്പുമുണ്ട് ഈ ലാബുകൾ മീഡിയം ഡെവലപ്മെന്റിനായി മാത്രം പ്രവർത്തിക്കുന്നു സെൽ കൾച്ചറിനുള്ള മീഡിയം തീർച്ചയായും അവർ സബ്സ്ട്രേറ്റ് വികസനത്തിനായി പ്രവർത്തിക്കുന്നു അപ്പോൾ അവർ മറ്റൊരു പ്രവർത്തി ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയാക്കാം ബയോ മെംസുകളുടെ ഒരു വിസ്തീർണ്ണമുള്ള മറ്റൊരു മേഖലയുണ്ട് സെൽ അധിഷ്ഠിത ബയോ മെംസ് സ്ട്രക്ചർ എന്നാൽ ഇവിടെ മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ എന്നാണ് s എന്നാൽ സിസ്റ്റങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ സെൽ അധിഷ്ഠിത ബയോ മെംസ് ഘടനകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ചരിത്രം പ്രചാരണമോ അറകളോ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അതിലേക്കു പിന്നീട് വരാം ആ വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ അവ മാറ്റങ്ങൾ വരുത്തിയതാണ് ക്യാമ്പയിങ്ങ് അല്ലെങ്കിൽ ചേമ്പറുകളും മറ്റ് നിരവധി കാര്യങ്ങളും ആളുകൾ ബയോ റോബോട്ടിക്സിലും മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്നു അതിനാൽ ഒന്നാമതായി മനസിലാക്കേണ്ടത് എന്താണ് ലക്ഷ്യം കാരണം തടസ്സങ്ങളുണ്ട് അതിനെതിരെ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ആദ്യം എന്താണ് ലക്ഷ്യം എന്താണ് ഉദ്ദേശ്യം അതിനാൽ നമുക്ക് എല്ലാ ഫംഗ്ഷനുകളും ശരിയായി നേടാം എന്താണ് ഫംഗ്ഷനുകൾ എന്ന് മനസിലാക്കേണ്ടത് പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷ്യങ്ങൾ അഥവാ ഉദ്ദേശങ്ങൾ ആണ് ഇതിനെപ്പറ്റി നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന കൃത്യമായ ധാരണ ഉണ്ടാവണം അതുകൂടാതെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ലാബ് ഉപയോഗിക്കുന്നത് എന്നതും അറിയണം അതിനുശേഷം വരുന്നതാണ് തടസ്സങ്ങൾ എന്താണ് തടസ്സങ്ങൾ ലോകത്താകമാനം കാണപ്പെടുന്ന ആദ്യത്തെ തടസ്സം അത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോപണമില്ലയോ എന്നതിലുപരി എത്ര കണ്ടു പണം ഉണ്ട് എന്നതാണ് ലോകത്താകമാനം നേരിടുന്ന മറ്റൊരു തടസ്സമാണ് സ്ഥലപരിമിതി നിങ്ങൾ മേരിലാൻഡിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ പോയാൽ ഓഫീസ് ക്യൂബിക്കിളുകൾ പോലത്തെ ലാബുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം എന്തുകൊണ്ടെന്നാൽ ഇതാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സെൽ കൾച്ചർ സൌകര്യങ്ങൾ ഈ ചെറിയ സൌകര്യങ്ങളിൽ തന്നെ മൂന്നോ നാലോ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം അതിനാൽ നിശ്ചിത സ്ഥലം ഇതിനായി ലഭിക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതായത് ബാക്കിയുള്ള വാക്യും സിസ്റ്റങ്ങളും മറ്റു ചില പ്രത്യേക സൌകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവയെ കൂടുതൽ സങ്കീർണമാക്കാൻ പറ്റും സ്ഥലം ഒരു വലിയ പരിമിതിയാണ് അതുപോലെ തന്നെയാണ് സ്ഥലത്തിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഈ ലേഔട്ടുകൾ എല്ലാം സ്ഥലപരിമിതി മാനേജ് ചെയ്യാൻ ഉള്ളതാണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി സ്ഥലപരിമിതി ഉണ്ട് അതിനാൽ തന്നെ ആ സ്ഥല പരിമിതിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഏതൊക്കെ തരം ഉപകരണങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അവയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടാകണം ആ സ്ഥലത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ ഇതാണ് രണ്ടാമത്തെ പരിമിതി ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇനി മൂന്നാമത്തെ പരിമിതി സാമ്പത്തികമാണ് എവിടെയെല്ലാം നിങ്ങൾ ലാബുണ്ടാക്കാൻ നോക്കുന്നുവോ അവിടെയെല്ലാം സാമ്പത്തിക പരിമിതികൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ ദിശാസൂചികയെ ഇങ്ങനെ കാണിക്കുകയാണ് അതായത് ആവശ്യമായ സ്ഥലവും സാമ്പത്തികവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ വേറെ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തീരുമാനിക്കണം ഏതു ലെവൽ സങ്കീർണതകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ലാബ് സ്ഥിരമായി ഒരു പ്രത്യേക സെൽ ലൈൻ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക സെൽ ലൈൻ എന്താണ് എന്ന് നമ്മുടെ ആദ്യത്തെ ആഴ്ചയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജോലി ആ സെൽ ലൈനിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിനായി എല്ലാ ആഴ്ചയിലും അതിനെ നിങ്ങൾ പാസ്സേജിലൂടെ കടത്തിവിടുകയും സബ് കൾച്ചർ ചെയ്യുകയും അങ്ങനെ നിങ്ങൾ അവയെ വളർത്തി അവയെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ആ സെല്ലുകളെ വെറുതെ നിരീക്ഷിച്ചാൽ മതിയെങ്കിൽ ഒരുപാട് ഉയർന്ന നിലവാരമുള്ള മൈക്രോസ്കോപ്പിൻറെ ആവശ്യമില്ല അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വലിയ മൈക്രോസ്കോപ്പിനായി നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കുകയില്ല എന്നാൽ നിങ്ങളുടെ ലാബിൽ ഒരുപാട് സെൽ ബയോളജി പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിൽ അവ നിങ്ങളുടെ സെൽ കൾച്ചറിനെ ആശ്രയിച്ചാണിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല മൈക്രോസ്കോപ്പിൻറെ ആവശ്യകതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് നിങ്ങളുടെ മേശക്കരികിൽ തന്നെ വേണ്ടിവരും അതുകൊണ്ട് ഈ തീരുമാനങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും എല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ അടുത്ത പത്തു വർഷത്തേക്ക് എന്തെങ്കിലും വിപുലീകരണം ആലോചനയിൽ ഉണ്ടോ എന്നതും പ്രധാനപ്പെട്ടതാണ് അതായത് നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ വേണം അതായത് ഏത് മേഖലയിലാണ് ചെയ്യാൻ പോകുന്നത് എന്ന ധാരണ വേണം അങ്ങനെയൊരു ധാരണയില്ലെങ്കിൽ അതായത് ഒരു പുതിയ അധ്യാപകനോ നിങ്ങൾക്കോ അതിനെ പറ്റി ധാരണ ഇല്ലാതെ വരാം ഇത്തരം സന്ദർഭങ്ങൾ എല്ലാം എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഞാൻ എന്റെ ലാബ് സജ്ജമാക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ എംപ്ലോയീസിനായി ഞാൻ ബ്ലാസ്റ്റ് സജ്ജമാക്കുമ്പോൾ ഞാൻ എല്ലായ്പോഴും അവരോട് ഈ ലളിതമായ കാര്യം പറഞ്ഞു ഈ സമയത്തു എനിക്കറിയില്ല ഞാൻ ഈ മേഖല ഉപയോഗിക്കുമോ എന്ന് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക അതായത് എല്ലാ പ്രദേശവും ഉപയോഗിക്കരുത് ആ പ്രദേശം ഉപയോഗിക്കാത്ത പോലെ തോന്നരുത് എന്നാൽ ഒരു ബഫർ സ്പേസ് വേണം നാളെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു മേഖലയിൽ ഗവേഷണം നടത്തണം എന്ന് വിചാരിക്കുക അതായത് എനിക്കിത് ചെയ്യണം എന്നാൽ എവിടെയാണ് അതിനുള്ള സ്ഥലം എൻറെ കൈയിലുള്ളതെല്ലാം വലിയ വലിയ സാധനങ്ങളാണ് അവ ഈ സ്ഥലം എല്ലാം കവർന്നിരിക്കുന്നു ഇത്തരമൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടത് വളരെ പ്രധാനമാണ് നമ്മൾ എല്ലാം വളരുകയാണ് നമ്മുടെ ആഗ്രഹങ്ങളും മാറുകയാണ് അതു പോലെ തന്നെ അഭിരുചിയും ശാസ്ത്രപരമായ പ്രശ്നങ്ങളും നമ്മെ പുതിയ മേഖലകളിലേക്ക് ചൊല്ലാനായി പ്രേരിപ്പിക്കുന്നു അതിനാൽ ഇത് സ്ഥലം കൈകാര്യം ചെയ്യുന്നതിനെയും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനെയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ മറന്നു പോകുന്നതിനു മുൻപ് നമ്മൾ എല്ലാവരും ഇവിടെ ഭാവിയിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ഒരു ബഫർ സ്പേസ് മാറ്റിവയ്ക്കണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നിങ്ങൾ മാറ്റിവെച്ചില്ലെങ്കിൽ ഒരു കാലത്തു നിങ്ങൾക്കു തോന്നും അത് ഉപകരിക്കുമായിരുന്നു എന്ന് അടുത്തതായി ഏതു ലെവൽ സങ്കീർണതയാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അത് എന്തെല്ലാമാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബയോ സേഫ്റ്റിയാണ് ഏതു ലെവൽ ബയോ സേഫ്റ്റിയാണ് വേണ്ടത് എന്താണ് ബയോ സേഫ്റ്റി ഇതിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു വസ്തുതയെ പറ്റി നോക്കാം ഉദാഹരണത്തിന് ഞാൻ ജോലി ചെയ്യുന്നത് വളരെ മാരകമായ വൈറസ് കൊണ്ടാണ് എന്ന് വിചാരിക്കുക എബോള പോലുള്ളവ എബോള ഒരു ബയോ ടെസ്റ്റിംഗ് ഏജൻറ് ആണ് അല്ലെങ്കിൽ മാർബർഗ് വൈറസ് ആകാം ഇവിടെ ഒത്തിരി ലാബുകളുണ്ട് എന്നാൽ വെറും മൂന്നോ നാലോ ലാബുകൾക്ക് മാത്രമേ ഇത്തരം ലെവലിൽ ഉള്ള മാരകമായ വൈറസുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഥവാ നിങ്ങൾക്ക് മാരകമായ TB ട്യൂബർകുലോസിസ് വൈറസ് കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ഇവ സാധാരണമാണ് അതിനു നമ്മൾ പ്രാപ്തരാണോ ഇത് ഉപയോഗിക്കുന്ന വ്യക്തി ഞാനാണ് ആദ്യമേ ഞാൻ എന്നെത്തന്നെ ഇൻഫെക്ഷൻ ഭീഷണിയിൽ നിർത്തുകയാണ് പിന്നെ എന്നിൽ നിന്ന് ഈ ലാബിൽ ജോലി ചെയ്യുന്നു മറ്റുള്ളവർക്കും അസുഖം കിട്ടാം അവിടെയും അവസാനിക്കാതെ മൊത്തം പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ അസുഖം ബാധിക്കാം ഇവയെല്ലാം വളരെ മാരകമാണ് ആദ്യമേ തന്നെ ലക്ഷ്യത്തിൻറെ ശക്തിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അതിലേക്ക് ഞാൻ കുറച്ചുകൂടി പോയിൻറ്കൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ പകർച്ചവ്യാധി ബയോളജിയെ പറ്റിയാണോ അതോ വൈറോളജിയെ പറ്റിയാണോ പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെയാണ് ബയോ സേഫ്റ്റിയുടെ പ്രാധാന്യം കടന്നുവരുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ സാധാരണ സെൽ ലൈനുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അതുമല്ലെങ്കിൽ ഇന്ന് ബയോളജിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പദാർഥങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലും യാതൊരു പ്രശ്നവുമില്ല രസകരമായ വസ്തുതകൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരു പുതിയ യുഗത്തിലാണ് ജീവിക്കുന്നത് ബയോളജി സെൽ ഡെവലപ്മെൻറ് ബയോളജി എന്നിവയിൽ പല കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുണ്ട് അതായത് നമ്മൾ ട്രാൻസ് ജനിക്സിലാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൽ DNA ട്രാൻസ്ഫർ RNA I എന്നിവയുണ്ടോ എന്നത് പ്രധാനമാണ് അങ്ങനെയെങ്കിൽ എടുക്കേണ്ട മുൻകരുതലുകളിലും വ്യത്യാസമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ജനറ്റിക് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ധാരാളം നിയമങ്ങളും റെഗുലേഷനുകളും ബാധകമാണ് അത് നിങ്ങൾ എവിടെ ആയാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും ഏത് രാജ്യത്തായാലും വളരെ ശക്തമായ നിയമങ്ങൾ ഇതിനു ബാധകമാണ് അപ്പോൾ ഡിസൈൻ രൂപീകരിക്കുന്നതിന് മുൻപ് ഇത്തരം നിയമാവലികൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കറിയാം ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് എന്നാൽ ആ കെട്ടിടത്തിൽ ശരിയായ എക്സ്ഹോസ്റ്റോ പുറത്തേക്ക് കടക്കാനും രക്ഷപ്പെടാനും മതിയായ മാർഗ്ഗങ്ങളോ ഇല്ലാതെയാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെയും നിങ്ങൾ അപകടത്തിൽപെടുത്തുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടകാരിയായ ഒരു സിസ്റ്റത്തിനെയാണ് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഒരു രൂപകല്പനയും തുടങ്ങി വയ്ക്കരുത് ആദ്യമേ തന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നാൽ ഈ പോയിന്റുകളൊന്നും ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ കഴിയില്ല എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇത് ചെയ്തുകൂടാ എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകണമെങ്കിൽ പ്രാക്ടിക്കൽ അറിവ് ആവശ്യമാണ് ചില ബിൽഡിങ്ങുകൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാവില്ല അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം പല ലെവൽ ബയോസേഫ്റ്റികൾ ഉണ്ട് അതായത് ഇത് ബയോസേഫ്റ്റി ലെവൽ 1 ബയോസേഫ്റ്റി ലെവൽ 2 ബയോസേഫ്റ്റി ലെവൽ 3 ബയോസേഫ്റ്റി ലെവൽ 4 എന്നിങ്ങനെ ഇത്തരം അപകടങ്ങളെപ്പറ്റി കൂടുതലറിയാൻ താല്പര്യമുള്ളവർ ഹോട്ട് സോൺ എന്ന പുസ്തകം വായിക്കണം നിങ്ങൾക്ക് അത് ഓൺലൈനിൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്നെ ബന്ധപ്പെടുക എൻറെ കയ്യിൽ അതിൻറെ e കോപ്പി ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് നൽകാം ഇത് വളരെ രസകരമായ ഒരു പുസ്തകമാണ് മാരകമായ വൈറസുകൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറും എന്നാണ് അവർ പറയുന്നത് അതിനാൽ അടുത്തത് ബയോ സേഫ്റ്റി ലെവലാണ് നിങ്ങൾ വളരെ വിമർശനാത്മകമായിരിക്കണം തീർച്ചയായും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഡിഎൻഎയുമായി പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങൾ മറ്റ് ന്യൂക്ലിക് ആസിഡുകളുമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണംനിങ്ങൾ ജീവനുള്ള മൃഗങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽപ്രാഥമിക അഥവാ പ്രൈമറി കൾച്ചർ ചെയ്യാനായി ടിഷ്യു മൃഗത്തിൽ നിന്ന് നേരിട്ട് എടുക്കണം അതിനായി നിങ്ങൾ മൃഗത്തെ കൊല്ലണം അല്ലെങ്കിൽ ചർമ്മത്തിന്റെ ടിഷ്യു ഒരു ചെറിയ ഭാഗം എടുക്കുകയാണെങ്കിൽ ടിഷ്യു എടുക്കുകയും മൃഗത്തിന് ആവശ്യമായ പ്രഥമശുശ്രൂഷ നൽകുകയും ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് മൃഗത്തെ ബലിയർപ്പിക്കാനും ആ മൃഗത്തിൽ നിന്ന് ടിഷ്യു പുറത്തെടുക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി വ്യത്യസ്ത തലത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള സൌകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ പുറത്തുവരുന്നത് മാത്രമല്ല ഒന്നാമതായി ഏതെങ്കിലും മൃഗങ്ങളെ കൊല്ലുന്നത് മാനുഷികമായ രീതിയിലാണോ എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് ധാർമ്മികമായാണ് ചെയ്യേണ്ടത് അത് ഒരു മുൻ വ്യവസ്ഥയാണ് അതിനാൽ ആദ്യം നിങ്ങൾ മൃഗത്തെ എങ്ങനെ കൊല്ലുന്നു എന്നിട്ട് ടിഷ്യു പുറത്തെടുത്താൽ നിങ്ങൾ മൃഗത്തെ എങ്ങനെ പുറന്തള്ളുന്നു നിങ്ങൾ എവിടെയാണ് കുഴിച്ചിടുന്നത് ഇവ വളരെ ധാർമ്മികവും മാനുഷികവുമായ വശങ്ങളാണ് അത് എങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമായിരിക്കണം കാരണം ലോകമെമ്പാടുമുള്ള എല്ലാ അംഗീകൃത സ്ഥാപനങ്ങളിലും അനിമൽ എത്തിക്കൽ അഥവാ നൈതിക സമിതികളുണ്ട് തുടർന്ന് നിങ്ങൾ നൈതിക അനുമതികൾ എടുക്കണം ഏതൊക്കെ നൈതിക അനുമതികൾ വേണമെന്നറിഞ്ഞിരിക്കണം നിങ്ങൾക്കറിയാവുന്ന ചില മൃഗങ്ങളെ മാറ്റിനിർത്തിയാൽ ധാർമ്മിക അനുമതിയില്ലാതെ മത്സ്യങ്ങളുമായി പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ ഡ്രോസോഫിലയുമായും നിങ്ങൾക്ക് നൈതിക അനുമതി ആവശ്യമില്ലാത്ത എല്ലാ ചെറിയ സിസ്റ്റങ്ങളുമായും പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് താഴ്ന്ന മൃഗങ്ങളുണ്ട് പക്ഷേ എലിയിലേക്ക് ഗിന്നി പന്നികളിലേക്ക് നിങ്ങൾ നീങ്ങുന്ന നിമിഷം തന്നെ അവയ്ക്കെല്ലാം നൈതിക അനുമതി ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നൈതിക അനുമതികളാണ് ആവശ്യം ജീവനുള്ള മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ പ്രൈമറി കൾച്ചറിനെ പറ്റി പറയുമ്പോൾ മൃഗങ്ങളെ എങ്ങനെയാണു ഇതിനായി ബലി നൽകുക അവയെ എങ്ങനെ സംസ്കരിക്കാം അവ കൂടാതെ അവയിൽ നൈതിക അനുമതിയെ പറ്റിയും പറയാം അതിനാൽ ഒരു ലാബിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കും എന്ന വിഷയം മനസ്സിലാക്കുന്നതിനുമുൻപ് മറ്റ് ചില കാര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട് അതിനാൽ അത്യാധുനിക സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരാൾ എടുക്കേണ്ട എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളും മുൻകരുതലുകളും എന്താണെന്ന് മനസിലാക്കുന്നതിനുള്ള യാത്ര നമ്മൾ പുനരാരംഭിക്കും